സെക്ഷൻസ് ആൻഡ് സെക്ഷണൽ വ്യുസ് എല്ലാവർക്കും സ്വാഗതം എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് ആൻഡ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്ന നമ്മളുടെ എൻപിടിഎൽ ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സിലേക്ക് സ്വാഗതം നമ്മൾ മൊഡ്യൂൾ നമ്പർ 5 ലക്ചർ നമ്പർ 45 ലാണ് ഈ മൊഡ്യൂളിൽ നമ്മൾ പ്രധാനമായും സെക്ഷൻസ് സെക്ഷനൽ വ്യൂ മുതലായവ ആരിക്കും നോക്കുന്നതു എപ്പോഴാണ് ഈ സെക്ഷൻസ് സെക്ഷനൽ വ്യൂ മുതലായവ ആവശ്യമുള്ളത് സെക്ഷൻസിൻ്റെ പ്രാധാന്യം എന്താണ് നമ്മളുടെ മൊഡ്യൂൾ നമ്പർ 5 ൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതാണ് നമ്മളുടെ സെക്ഷനൽ വ്യൂ എന്ന വിഷയം ആരംഭിക്കാം പ്രധാനമായും പ്രിസങ്ങൾ സിലിണ്ടറുകൾ പിരമിഡുകൾ കോണുകൾ അല്ലെങ്കിൽ വിവിധ ഭാഗങ്ങൾ ഒരുമിച്ചുകൂട്ടിയ അസംബ്ലി ഡ്രോയിംഗുകൾ എന്നിവ കാണിക്കുന്നതിന് ഈ സങ്കീർണ്ണമായ വിശദാംശങ്ങൾ മനസിലാക്കാൻ നമ്മൾക്ക് സെക്ഷൻസ് ആവശ്യമാണ് ഒരു സെക്ഷനൽ വ്യൂ നിർമിക്കുന്നതിനുള്ള പ്രധാന കാരണം മറഞ്ഞിരിക്കുന്ന ലൈനുകൾ ഇല്ലാതാക്കുന്നതിലൂടെ ഒരു ഡ്രോയിംഗ് കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കാനോ ദൃശ്യവൽക്കരിക്കാനോ കഴിയും ഉദാഹരണത്തിന് ഞാൻ ഡ്രോയിംഗിൽ ഒരു സിലിണ്ടർ വരയ്ക്കുകയാണെങ്കിൽ ഒരുപക്ഷേ വ്യുകൾ അതിന്റെ ഫ്രണ്ട് വ്യൂവും ടോപ് വ്യൂവും ആയിരിക്കും നമ്മൾ അതിനെ ആ രീതിയിൽ കാണിക്കുന്നു സോളിഡ് വസ്തു ആണോ ഹോളോ ആണോ എന്ന് എങ്ങനെ അറിയും അത് കാണിക്കുന്നതിന് നമ്മൾക്ക് ഇത്തരത്തിലുള്ള സെക്ഷനൽ വ്യൂ കൾ ആവശ്യമാണ് ഉദാഹരണത്തിന് ഇത് ഒരു ഷീറ്റ് മെറ്റൽ മാത്രമാണെങ്കിൽ നമ്മൾ അതിനെ പ്രതിനിധീകരിക്കുമ്പോൾ വളരെ ചെറിയ കനം ഫ്രണ്ട് വ്യൂവിൽ ഇത് ഒരു സോളിഡ് വസ്തുവാണോ അതോ ഹോളോ ആണോ എന്ന് നമ്മൾക്ക് അറിയില്ല നമ്മൾ ഒരു കട്ട് സെക്ഷൻ ഉണ്ടാക്കിയില്ലെങ്കിൽ ഈ ആദ്യ ഭാഗം നീക്കംചെയ്ത് ഷീറ്റ് മെറ്റലിനെ കട്ടിയുള്ള ഒരു ലൈനിൽ പ്രതിനിധീകരിക്കാൻ കഴിയുന്നതുപോലുള്ള ഒന്ന് ആക്കുക ആ ചുവന്ന ഭാഗത്തിനും വെളുത്ത ഭാഗത്തിനും ഉള്ളിൽ മെറ്റീരിയൽ ഉണ്ടോയെന്ന് ഇത് സൂചിപ്പിക്കുന്നു ഒരു മെറ്റീരിയലും ഇല്ല ഈ ആവശ്യത്തിനായിനമ്മൾക്ക് ഈ സെക്ഷൻസ് ആവശ്യമാണ് കൂടുതൽ വിശദാംശങ്ങൾ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കും സാധാരണയായി ഈ സെക്ഷൻസ് വ്യക്തത മെച്ചപ്പെടുത്തുന്നതിനും ഭാഗങ്ങളുടെ ആന്തരിക സവിശേഷതകൾ വെളിപ്പെടുത്തുന്നതിനും നമ്മളെ സഹായിക്കുന്നു വളരെ സങ്കീർണ്ണമായ അസംബ്ലികളുടെ ആന്തരിക സവിശേഷതകൾ എല്ലായ്പ്പോഴും ഈ സെക്ഷണൽ പ്ലെയിനിൽ തിരഞ്ഞെടുക്കുന്നു ഉദാഹരണത്തിന് നമ്മൾക്ക് ഫ്രണ്ട് വ്യൂവിൽ ഒരു മോണിറ്റർ ഉണ്ട് ഒരു ചതുരാകൃതിയിലുള്ള ഭാഗം പോലെ എന്തെങ്കിലും നമ്മൾ കാണും പക്ഷേ അതിനുള്ളിൽ എന്താണെന്ന് നമുക്കറിയില്ല അതിനാൽ സാധാരണയായി ഡ്രോയിംഗ് ഷീറ്റിൽ ഈ കമ്പ്യൂട്ടർ മോണിറ്ററുകൾ നിർമ്മിക്കുന്നവർ അല്ലെങ്കിൽ ആ മോണിറ്ററുകളുടെ വ്യക്തിഗത ഘടകങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നവർ ഈ കമ്പ്യൂട്ടർ മോണിറ്ററിലൂടെ കടന്നുപോകുന്ന ഒരു സ്ലൈസ് നിർമ്മിച്ച് ഒരു സെക്ഷനൽ വ്യൂ അവർ പ്രതിനിധീകരിക്കും അതിനാൽ മുകളിലെ ഭാഗം നീക്കംചെയ്യുകയും താഴത്തെ ഭാഗം കാണാൻ പറ്റുകയും ചെയ്യുന്നതിലൂടെ ഏത് തരം ഇലക്ട്രോണിക് ഘടകങ്ങൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകും അത്തരത്തിലുള്ള ഡ്രോയിംഗുകൾ സാധാരണയായി നമ്മൾ നിർമാണ മേഖലയിൽ ഉപയോഗിക്കുന്നു അതിനാൽ ഒരാൾ അസംബ്ലി ചെയ്യേണ്ട രീതി ഇതാണ് ആ വീക്ഷണകോണിൽ സെക്ഷനൽ വ്യൂ കൾ വളരെ സഹായകരമാണ് അല്ലെങ്കിൽ ഒരുപക്ഷേ നമ്മൾക്ക് ഒരു പേനയുണ്ട് അതിനാൽ ഫ്രണ്ട് വ്യൂവിൽ നിന്ന് ടോപ് വ്യൂ കോണാകൃതിയിലുള്ള ഭാഗങ്ങളുള്ള സിലിണ്ടർ ഭാഗങ്ങൾ ആയി നമ്മൾ കാണുന്നു എന്നാൽ അകത്ത് നേർത്ത റീഫിൽ അല്ലെങ്കിൽ കട്ടിയുള്ള റീഫിൽ ഉണ്ട് ഡ്രോയിംഗ് ഷീറ്റിൽ അതിനെക്കുറിച്ച് എങ്ങനെ അറിയാം നിങ്ങൾ മറ്റ് അസംബ്ലി പ്ലാനുകളുമായി ആശയവിനിമയം നടത്തുമ്പോൾ സാധാരണയായി നിങ്ങൾ ഈ ഡ്രോയിംഗ് ഷീറ്റുകൾ ഇത് പോലെ കാണിക്കുന്നു നിങ്ങൾക്ക് ഈ സെക്ഷനൽ വ്യൂ ഉണ്ടായിരിക്കണമെങ്കിൽ ഒരുപക്ഷേ അത്തരം റീഫിൽ ഒരാൾ അത് ഉപയോഗിച്ചേക്കാം ആ കാഴ്ചപ്പാടിൽ നമ്മൾക്ക് ഈ വ്യൂകൾ ആവശ്യമാണ് അതിനാൽ ആന്തരിക സവിശേഷതകൾ വെളിപ്പെടുത്തുന്നതിന് ഒബ്ജക്റ്റിലൂടെ കടന്നുപോകുന്ന ഒരു സാങ്കൽപ്പിക കട്ട് പ്ലെയിൻ ഉപയോഗിക്കുന്നതിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് പരമ്പരാഗത സെക്ഷനൽ വ്യൂ നമ്മൾ അതിനെ മുറിച്ചതല്ല മറിച്ച് ഇത് ഒരു സാങ്കൽപ്പിക പ്രക്രിയ പോലെയാണ് ഒരാൾക്ക് അത്തരത്തിലുള്ള സെക്ഷനൽ വ്യൂ നടത്താൻ കഴിയുമെങ്കിൽ അകത്ത് അവ എങ്ങനെ കാണപ്പെടും ഈ സാങ്കൽപ്പിക കട്ട് പ്ലെയിൻ ഡിസൈനർ നിയന്ത്രിക്കുന്നു മാത്രമല്ല ഒബ്ജക്റ്റിലൂടെ പൂർണ്ണമായും പോകാനും കഴിയും അത് സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ ഫുൾ സെക്ഷനൽ വ്യൂ എന്ന് വിളിക്കുന്നു ഉദാഹരണത്തിന് നമ്മൾക്ക് ഒരു കുപ്പി ഉണ്ട് ഈ പ്ലയിൻ പോലെ എന്തെങ്കിലും ലഭിക്കണമെങ്കിൽ അത് മുറിക്കുക അതിനാൽ നമുക്ക് പുറകുവശത്തെ ഭാഗം ബി മുൻവശത്തെ ഭാഗം എഫ് എന്ന് വിളിക്കാം ഈ മുൻവശത്തെ ഭാഗം നീക്കംചെയ്യുക നിങ്ങൾ പുറകുവശത്ത് നോക്കുകയാണെങ്കിൽ ഇത് പോലെ തോന്നുന്നു ഒരുപക്ഷേ ഇത് ഒരു പ്ലാസ്റ്റിക്ക് ഉപയോഗിച്ച് വളരെ നേർത്ത മെറ്റീരിയലിലാണ് നിർമ്മിച്ചതെങ്കിൽ ഈ പ്ലാസ്റ്റിക് മെറ്റീരിയൽ ഉള്ള ഭാഗമാണിത് ശേഷിക്കുന്ന സ്ഥലം ശൂന്യമാണ് അതിനാൽ ഇത്തരത്തിലുള്ളവയെ കാണിക്കുന്നതിന് നമ്മൾ ചിലതരം പ്രോട്ടോക്കോളുകൾ ഉപയോഗിക്കുന്നു നമ്മൾ ആ ലൈനുകൾ ഇരുണ്ടതാക്കണമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ചെരിഞ്ഞ ലൈനുകൾ തുടങ്ങിയവ കാണിക്കണോ ഇത്തരത്തിലുള്ള കര്യങ്ങൾ ഈ സെക്ഷൻ സെക്ഷനൽ വ്യൂ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കും മുഴുവൻ സെക്ഷനും നീക്കംചെയ്യുന്നതിനുപകരം ഒരാൾക്ക് പകുതി സെക്ഷൻ ഉണ്ടാക്കാം അത് ഒബ്ജക്റ്റിലൂടെ പാതിവഴി വരെ പോകുന്നതു പോലെയാണ് ചില സമയങ്ങളിൽ സെക്ഷൻസ് ഹോറിസോണ്ടൽ ആയിട്ടോ അതിന് ലംബം അയിട്ടോ പോകാൻ കഴിയില്ല എന്നാൽ വളവുള്ള ചില വ്യുകൾ ഒരാൾക്ക് നിർമ്മിക്കാൻ കഴിയും സങ്കീർണമായ ഒബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ വളഞ്ഞ തരത്തിലുള്ള സെക്ഷനൽ വ്യൂ കൾ നമ്മൾ കാണിച്ചില്ലെങ്കിൽ ആ മെറ്റീരിയലിനുള്ളിൽ എന്താണുള്ളതെന്ന് മനസിലാക്കാൻ നമ്മൾക്കു കഴിയില്ല ചിലപ്പോൾ അത് പൂർണ്ണമായും അതിലൂടെ കടന്നുപോകുന്നു എന്നാൽ ബ്രോകൺ കട്ട് സെക്ഷനൽ വ്യൂ കൾടെ വിശദാംശങ്ങൾ നമ്മൾ പിന്നീട് കാണും കട്ട് പ്ലെയിൻ ലൈൻ ആണ് ഒബ്ജക്റ്റ് ലുടെ കട്ട് പ്ലെയിൻ ഏതുവഴി കടന്നുപോകുന്നതെന്ന് കാണിക്കുന്നത് കട്ടിംഗ് പ്ലയിനിന്റെ എഡ്ജ് വ്യൂ ഇത് കാണിക്കും കൂടാതെ സെക്ഷനൽ വ്യൂ യോട് ചേർന്നുള്ള വ്യൂവിൽ കൂടെ ഇത് വരക്കും അതിനാൽ രണ്ട് ആശയങ്ങൾ പ്രധാനമാണ് ഒന്ന് കട്ട് പ്ലെയിൻ മറ്റൊന്ന് കട്ട് പ്ലെയിൻ ലൈൻ ഉദാഹരണത്തിന് നമ്മൾക്ക് ഒരു ബ്ലോക്ക് ഉണ്ട് ഈ പോയിന്റുകളിലൂടെ കടന്നുപോകുന്ന കട്ട് പ്ളയിൻ അതായിരിക്കാം ടോപ് വ്യൂ വിൽ നിന്ന് നോക്കുമ്പോൾ ഒരു പ്ലെയിൻ മെറ്റീരിയലിലൂടെ കടന്നുപോകുന്നത് പോലെ കാണാം അതിന് അരോ ആയിട്ട് നമ്മൾ കാണിക്കും ഇതിനെ നമ്മൾ ലൈൻ അല്ലെങ്കിൽ കട്ട് പ്ലെയിൻ ലൈൻ എന്ന് വിളിക്കുന്നു ഇതിനെ കട്ട് പ്ലെയിൻ എന്ന് വിളിക്കുന്നു നമുക്ക് ഒരു ഉദാഹരണം നോക്കാം ഇവിടെ നമുക്ക് ഒരു വസ്തു ഉണ്ട് ഈ ദ്വാരങ്ങളിലൂടെ ബോൾട്ട് ചെയ്യാൻ കഴിയും ഇത് ഉള്ളിലെ ഒരു ഹോളോ ആയിട്ടുള്ള ഭാഗമാണ് ആ ഭാഗത്ത് ചെറിയ ഒരു ടേപ്പർ ആണ് നമ്മൾ ഒരു കട്ട് സെക്ഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ അവിടെ വരെ മുറിക്കുക നമുക്ക് ആ ഭാഗം വരെ നീക്കംചെയ്യാൻ കഴിയുമെങ്കിൽ അവശേഷിക്കുന്ന ഭാഗം അങ്ങനെയായിരിക്കും ഇത് ചെയ്യുന്നതിലൂടെ ഉള്ള പ്രയോജനം ഈ ബോൾട്ടിന് എത്രത്തോളം പോകാമെന്ന് നമുക്ക് കാണാൻ കഴിയും ഇതുവഴി അത് താഴേക്ക് പോകുന്നു രണ്ടാമത്തെ കാര്യം നമ്മൾക്ക് ഒരു സ്റ്റെപ് ഉണ്ട് അത് കാണാൻ കഴിയും മൂന്നാമത്തേത് ഉള്ളിൽ ടേപ്പർ ഉണ്ടോ ഇല്ലയോ എന്നത് നമുക്ക് കാണാൻ കഴിയും ആ വസ്തുവിന്റെ കനം കാണാം കൂടാതെ ഇതേ കനം നമ്മൾക്ക് ഇരുവശത്തും കാണുമോ ഇല്ലയോ ഇത്തരത്തിലുള്ള സങ്കീർണ്ണമായ വിശദാംശങ്ങൾ ഈ സെക്ക്ഷണൽ വ്യവിലൂടെ നമുക്ക് എളുപ്പത്തിൽ നിരീക്ഷിക്കാൻ കഴിയും അതിനാൽ ഡ്രോയിംഗ് ഷീറ്റിൽ ഈ സങ്കീർണ്ണമായ ത്രീ ഡയമെൻഷനൽ ആകൃതികളെ കാണിക്കുന്നതിന് പകരം സാധാരണയായി നമ്മൾ 2 ഡി സ്കെച്ചുകൾ പ്രത്യേകിച്ച് പ്രൊജക്ഷനുകൾ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനുകൾ എന്നിവ കാണിക്കുന്നു ഈ വസ്തുവിനെക്കുറിച്ചാണെങ്കിൽ ഈ ദിശയിൽ ഒരു ഫ്രണ്ട് വ്യൂ ഉണ്ടായിരിക്കും നമ്മൾ ഈ അറ്റം കാണിക്കും ഈ അറ്റം ഇതുമായി പൊരുത്തപ്പെടുന്നു ഒരു ബോൾട്ട് കേറ്റിവെച്ച പോലെ ഇരിക്കും അത് ഇവിടെ കാണിക്കാൻ കഴിയും അതുപോലെ നമുക്ക് ഇത് അവിടെ കാണിക്കാൻ കഴിയും അതിനുള്ളിൽ ഹോളോ ആയതിനാൽ ഈ ഡാഷ് ലൈൻ ആയിട്ട് കാണിക്കും ഇത് ടേപേഡ് ആണ് അതാണ് ടേപേഡ് കിട്ടിയത് അത് പൊള്ളയാണ് അതിനാൽ വീണ്ടും നമുക്ക് ഈ ഹോളോ ആകൃതി കിട്ടി ഈ ഹോളോ ഭാഗം താഴേക്ക് പോകുന്നു ഇങ്ങനെ ആണ് നമ്മൾ പെടെസ്റ്റൽ പോലെ ഉള്ള ബ്രാക്കറ്റിന്റെ ഫ്രണ്ട് വ്യൂ കാണിക്കുന്നത് നമുക്ക് ഒരു കട്ട് സെക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് മെറ്റീരിയലും 2 ഡി ലെവലും കാണാൻ കഴിയും നമുക്ക് ആ ഭാഗം മാത്രമേ കാണിക്കാൻ കഴിയൂ അവിടെ ഈ ഹോളോ ഭാഗം ഒരാൾക്ക് ശ്രദ്ധിക്കാൻ കഴിയും ഏത് ലെവൽ വരെ ഉണ്ടെന്ന് ഈ കട്ട് സെക്ഷൻ ശരിക്കും കടന്നുപോകുന്നതും അവിടെ മെറ്റീരിയൽ ഉള്ളതുമായ പ്ലെയിൻ ഇതാണ് അതിനാൽ സാധാരണയായി നമ്മൾ 45 ഡിഗ്രി ചരിഞ്ഞ ലൈനുകൾ കാണിക്കുന്നു അവിടെ മെറ്റീരിയൽ ഉണ്ട് അതിനെയാണ് നമ്മൾ ഹാച്ചിങ് എന്നു പറയുന്നത് ഒരാൾക്ക് പൂർണമായ സെക്ഷൻ കാണിക്കാൻ കഴിയും പക്ഷെ അത് സിമ്മെട്രിക് ഒബ്ജക്റ്റ് മൂലമാണ് ഒരാൾക്ക് അത് മറുവശത്ത് മനസ്സിലാക്കാവുന്ന അവസ്ഥയിലായിരിക്കും അതിനാൽ ഇത് ചിത്രങ്ങൾ കാണിക്കുന്ന ഏറ്റവും ചുരുങ്ങിയ മാർഗമാണ് ഒരാൾക്ക് പൂർണമായ സെക്ഷൻ കാണിക്കാൻ കഴിയും അതെ ഒബ്ജക്റ്റിന്റെ സാധാരണ സ്റ്റാൻഡേർഡ് കൺവെൻഷന് പകരം ഇവ സിമെട്രിക് വസ്തുക്കളാണെങ്കിൽ ഇതിന്റെ നാലിലൊന്ന് ഭാഗം നീക്കംചെയ്യാൻ കഴിയും ശേഷിക്കുന്ന ഭാഗം ഹാചിഡ് ലൈൻ വെച്ച് കാണിക്കാൻ കഴിയും ഇത് ആ വസ്തുവിന്റെ ഒരു വ്യൂ ആണ് ഫ്രണ്ട് വ്യൂ ഉദാഹരണത്തിന് നമ്മൾക്ക് ഇത്തരത്തിലുള്ള ബോക്സ് ഉണ്ടെങ്കിൽ നമ്മൾ എടുത്ത ഒരു കട്ട് പ്ലയിൻ ഉണ്ടെങ്കിൽ ആരോ ആ ദിശയിലേക്കാണ് കാണിക്കുന്നത് ചെറിയ ഡാഷ് ലൈനുകൾ നിരീക്ഷിക്കുക അതിനാൽ വലിയ ഡാഷ് കഴിഞ്ഞു രണ്ട് ചെറിയ ഡാഷ് ലൈനുകളും കാണാം ഇവ ഒബ്ജക്റ്റിൽ അവസാനിക്കത്തില്ല മുകൾ ഭാഗത്തും താഴെയുമായി കാണാം ചില ആരോ കാണാം നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ സാധാരണ ആരോ കളുടെ ദിശയിലാണ് ചെയ്യുന്നത് അതിൽ നിന്ന് ഒബ്ജക്റ്റ് മാറ്റി സൂക്ഷിക്കുന്നു അങ്ങനെ ബാക്കി ഉള്ള ഭാഗം നീക്കം ചെയ്യുന്നു അതിനാൽ ആരോ ഈ വശത്താണ് അതിനർത്ഥം ഈ ഭാഗം നമ്മൾ സൂക്ഷിക്കും ഈ ഭാഗം നമ്മൾ നീക്കംചെയ്യും നമ്മൾ അത് നീക്കംചെയ്യുമ്പോൾ ആ ദിശയിൽ ഒരു സ്ലൈസ് ഉണ്ടാക്കിയ ശേഷം അതുപോലെ നിങ്ങൾക്ക് ഒരു സെക്ഷൻ കട്ട് പ്ലെയിനിലൂടെ ഉള്ളപ്പോൾ നിങ്ങൾ അത് നീക്കംചെയ്യുകയാണെങ്കിൽ ഇവിടെ മെറ്റീരിയലുകൾ ഒന്നുമില്ല ഇത് ശൂന്യമായ ഒന്നാണ് അതിനാലാണ് ഇവിടെ ഒന്നും ഇല്ലാത്തത് എന്നാൽ ഈ ഭാഗമാണ് നമുക്ക് മെറ്റീരിയൽ ഉള്ളത് ഈ മെറ്റീരിയലാണ് നമ്മൾ കാണിക്കുന്നത് അതുപോലെ മെറ്റീരിയൽ അവിടെയുണ്ട് ഇങ്ങനെ ആണ് നമ്മൾക്കു സെക്ഷൻ ലഭിക്കുന്നത് സാധാരണയായി കട്ട് പ്ലയിൻ കട്ടിയുള്ള ഡാഷ് ചെയ്ത ലൈനിൽ കാണിക്കുന്നു അത് വസ്തുവിന്റെ അറ്റം വരെ കാണാം ഇതാണ് ആ വസ്തുവിന്റെ അഗ്രം പക്ഷേ അത് 6 മില്ലീമീറ്ററോളം കടന്നുപോകുന്നു അതിനാൽ കുറഞ്ഞത് 6 മില്ലീമീറ്റർ നീളം കാണിക്കണം നിങ്ങൾ ഒരു സെക്ഷൻ കാണിക്കുമ്പോൾ ഉദാഹരണത്തിന് കട്ട് ചെയ്യാൻ ഉള്ള ഒബ്ജക്റ്റ് ഇതാണെങ്കിൽ നിങ്ങൾ അത് ആ രീതിയിൽ കാണിക്കരുത് നിങ്ങൾ ചെയ്യുന്നത് ഈ ഡാഷ് ലൈനുകളാൽ കാണിക്കുന്നു ഇത് നമ്മൾ സൂക്ഷിക്കുക ആരോ ദിശ ആ ദിശയിലായിരിക്കണം ഇത് നമ്മൾ നീക്കംചെയ്യുക ഓരോ അറ്റത്തും 90 ഡിഗ്രിയിൽ വരച്ച് ആരോ ഉപയോഗിച്ച് അവസാനിപ്പിക്കും അതിനാൽ ഇത് എല്ലായ്പ്പോഴും 90 ഡിഗ്രിയാണ് നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം ഇവിടെ നമുക്ക് ഒരു ബ്ലോക്ക് ഉണ്ട് അതിനുള്ളിൽ ഒരു ദ്വാരം ഉണ്ട് ഒരുപക്ഷേ ഈ ഭാഗത്ത് ഒരു ദ്വാരവുമില്ല മാത്രമല്ല ഈ മുഴുവൻ ബ്ലോക്കിന്റെയും ഒരു സെക്ഷനൽ വ്യൂ നമ്മൾക്ക് കാണിക്കാം സെക്ഷനൽ കട്ട് പ്ലെയിൻ സാങ്കൽപ്പികമാണ് ഇത് ഈ ലൈനിലൂടെ കടന്നുപോകും ആരോ ദിശ ഇതുവഴിയും കടന്നുപോകുന്നു അതിനർത്ഥം ആ വ്യൂ നിലനിർത്തുകയും ഈ ഭാഗം നീക്കം ചെയ്യുകയും ചെയ്യാം അതിനാൽ ഈ ഭാഗം പുറത്തുവരുന്നു ശേഷിക്കുന്ന ഭാഗം നമ്മൾ കാണിക്കുന്നു കാരണം ഇത് ഒരു സെക്ഷനൽ വ്യൂ യാണ് ഈ മെറ്റീരിയൽ ഭാഗം ഹാചിട് ലൈൻ വെച്ച് കാണിക്കും അതുപോലെ ഇവിടെ ഹാച്ച് ആയിരിക്കും സമാനമായി ഇത് ആരോ ദിശ ശ്രദ്ധിക്കുക അതിനാൽ ഒബ്ജക്റ്റിന്റെ ഫ്രണ്ട് വ്യൂവും വസ്തുവിന്റെ ടോപ് വ്യൂ വും നോക്കുകയാണെങ്കിൽ നമുക്ക് അത് കാണാൻ കഴിയും ഈ ദിശയിൽ മുൻവശം കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഒരുപക്ഷേ നമ്മൾ അടിവശത്ത് നിന്ന് ഒരു വഴി ദൃശ്യവൽക്കരിക്കുക അല്ലെങ്കിൽ ഈ ദിശയിൽ നിന്ന് ഒരു ഫ്രണ്ട് വ്യൂവായി കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ബാക്കിയുള്ള ടോപ്പ് വ്യൂ നമ്മൾ അതുവഴി കാണിക്കാൻ ആഗ്രഹിക്കുന്നു നമ്മൾ ഒന്നാം ആംഗിൾ പ്രൊജക്ഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് വ്യൂ മുകളിൽ ടോപ് വ്യൂ താഴെയും ആയിരിക്കും ഒരാൾ മൂന്നാം ആംഗിൾ പ്രൊജക്ഷനുമായി പോകുന്നുവെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് വ്യൂവും ടോപ് വ്യൂ വും അതിനാൽ ആ വ്യൂ ദിശകളെ അടിസ്ഥാനമാക്കി ഫ്രണ്ട് വ്യൂ ഭാഗത്തിന് ആ മെറ്റീരിയൽ ഘടകമുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും എന്നിരുന്നാലും വ്യൂ കാരണം ഈ പോയിന്റ് അവിടെ മാപ്പു ചെയ്യുന്നു മാത്രമല്ല ഈ ലൈനും ഇതും കാണാൻ കഴിയും അതിനാൽ ഈ പൂർണ്ണമായ ഭാഗം നമ്മൾക്കു കാണാൻ കഴിയും അതിലൂടെ കടന്നുപോകുന്ന ഒരു ചെറിയ ദ്വാരമുണ്ട് ഈ നീളമുള്ള ഡാഷ് ചെയ്ത ലൈനിലൂടെ നമുക്ക് അതിനെ കാണിക്കാൻ കഴിയും ഒബ്ജക്റ്റിന്റെ ഒരു സെക്ഷനൽ വ്യൂ ലഭിക്കുന്നതിനുള്ള മാർഗ്ഗമാണിത് സാധാരണയായി ഈ സെക്ഷൻ മറ്റൊരു വ്യൂവിൽ കാണിക്കാം ഒരുപക്ഷേ ഇവിടെ ടോപ് വ്യൂ വിൽ ആ ബ്ലോക്കിന്റെ മധ്യ പാളികളിലൂടെ കടന്നുപോകുന്ന ഒരു സെക്ഷൻ പരിഗണിക്കേണ്ടതുണ്ട് ഈ ഭാഗം നീക്കം ചെയ്യണം അതിന്റെ വ്യൂ നിലനിർത്തുക സ്വാഭാവികമായും അരോ യും നമ്മൾ ആ രീതിയിൽ കാണിക്കും ഈ ഒബ്ജക്റ്റിനായി ഈ ദിശയിൽ ആരോ കൾ കാണിക്കരുത് ഇത് നിലനിർത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെന്ന് ഇത് സൂചിപ്പിക്കുന്നു പക്ഷേ നമ്മൾ അത് നീക്കംചെയ്യാൻ ആഗ്രഹിക്കുന്നു അതേസമയം കേസ് മറ്റൊരു വഴിയാണ് അതിനാൽ ആരോ വ്യൂവിൽ ആയിരിക്കണം ഈ കട്ട് പ്ലെയിൻ ലൈനുകൾക്ക് അടിസ്ഥാനപരമായി രണ്ട് തരം ലൈനുകൾ സ്വീകാര്യമാണ് ഒന്നുകിൽ 6 മില്ലീമീറ്ററോളം ദൈർഘ്യമുള്ള ഡാഷ് വരികൾ കാണിച്ച് നീളമുള്ള ഡാഷുകൾ തമ്മിലുള്ള ദൂരം 1 5 മില്ലീമീറ്ററായിരിക്കും ആരോ കൾ എല്ലായ്പ്പോഴും 90 ഡിഗ്രി ലൈനിനെ സൂചിപ്പിക്കുന്നു മറ്റൊരു വഴി വലിയ ഡാഷും അതിനുശേഷം രണ്ട് ചെറിയ ഡാഷ് ലൈനുകളും വീണ്ടും വലിയ ഡാഷും കാണിക്കുന്നു അതിനാൽ ഒരു നീണ്ട ഡാഷ് ചെറിയ രണ്ട് ഡാഷുകൾ തുടർന്ന് ഒരു നീണ്ട ഡാഷ് ഈ വലിയ ഡാഷും ചെറിയ ഡാഷും തമ്മിലുള്ള ദൂരം 1 5 മില്ലീമീറ്ററാണ് സാധാരണയായി ഈ നീളമുള്ള ഡാഷിന് 20 മില്ലീമീറ്റർ മുതൽ 40 മില്ലീമീറ്റർ വരെ നീളവും ചെറിയ ഡാഷിന് സാധാരണയായി 3 മില്ലീമീറ്റർ നീളവുമുണ്ടാകും ഈ കട്ട് പ്ലെയിനിനായി നമ്മൾ എല്ലായ്പ്പോഴും വലിയ അക്ഷരങ്ങൾ ഉപയോഗിക്കുന്നു മാത്രമല്ല അവ കട്ട് പ്ലെയിനിന്റെ ഓരോ അറ്റത്തും കാണിക്കുകയും ചെയ്യുന്നു അതിനാൽ ഇവിടെ നിങ്ങൾ കട്ട് പ്ലെയിൻ സി സി യും ബി ബി എന്നിവ കാണുന്നുണ്ടെങ്കിൽ ഉദാഹരണത്തിന് ഒരു സിലിണ്ടറിനായി നമ്മൾ ഒരു കട്ട് പ്ലയിൻ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു ഇതാണ് കട്ട് പ്ലയിൻ ദിശ അതിനാൽ വലിയ ഡാഷിന് ശേഷം രണ്ട് ചെറിയ ഡാഷുകളും വലിയ ഡാഷും തുടർന്ന് രണ്ട് ഡാഷുകളും അങ്ങനെ കാണിക്കാം ആ വശത്തെ വ്യൂ നിലനിർത്തണം അപ്പോൾ ഇതാണ് പ്ലയിൻ സാധാരണയായി ഇത് ബി ബി എ എ മുതലായവയിൽ അവസാനിക്കുന്നു ഇവ സിലിണ്ടർ തരത്തിലുള്ള വസ്തുക്കളാണെങ്കിൽ മധ്യരേഖകൾ ഉണ്ട് ആക്സിസ് അല്ലെങ്കിൽ മധ്യരേഖയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കട്ട് പ്ലെയിൻ ലൈനിന് എല്ലായ്പ്പോഴും മുൻഗണനയുണ്ട് നമുക്ക് ആ വസ്തു നോക്കാം ഉദാഹരണത്തിന് ഇവിടെ നമുക്ക് ഒരു ഫ്രണ്ട് വ്യൂവും ഒരു ടോപ്പ് വ്യവും ഉണ്ട് ഇത് മൂന്നാം ആംഗിൾ പ്രൊജക്ഷനിലാണെങ്കിൽ ഒരു സൈഡ് വ്യൂ ഉണ്ട് അതിനാൽ ആ സർക്കിളിന്റെ മധ്യഭാഗത്തെയോ വൃത്താകൃതിയിലുള്ള സ്ഥാനത്തെയോ കാണിക്കുന്നതിന് ഇവിടെ നമുക്ക് ഒരു നീണ്ട ഡാഷ് ചെറിയ ഡാഷ് നീണ്ട ഡാഷ് എന്നിവയുണ്ട് ഇവിടെ നമ്മൾ വലിയ ഡാഷും അതിനുശേഷം രണ്ട് ചെറിയ ഡാഷുകളും വലിയ ഡാഷും ഒരു സെക്ഷനൽ വ്യൂവായി കാണിക്കുന്നു നമ്മൾക്ക് അത്തരത്തിലുള്ള എന്തെങ്കിലും ഉള്ളപ്പോൾ ആ സെക്ഷനൽ വ്യൂ മാത്രമേ നന്മൾ കാണിക്കുകയുള്ളു എന്നാൽ മധ്യഭാഗത്തെ സൂചിപ്പിക്കുന്നതിന് നീണ്ട ഡാഷ് ചെറിയ ഡാഷ് നീണ്ട ഡാഷ് എന്നിവ നമ്മൾ കാണിക്കുന്നില്ല അതിനാൽ മധ്യരേഖയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു സെക്ഷനൽ വ്യൂ ലൈൻ ഉണ്ടെങ്കിൽ ആ കട്ട് പ്ലെയിൻ ലൈൻ മാത്രമേ കാണിക്കൂ അതിനാൽഈ ഭാഗം നമ്മൾ നീക്കംചെയ്യുകയാണെങ്കിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന സെക്ഷൻ ഈ വ്യു ആണ് ആരോ ദിശ ഈ ദിശയിലായതിനാൽ നമ്മൾ ഈ ഭാഗം നീക്കംചെയ്യുന്നു അതിനാൽ ആ ഭാഗം നിലനിർത്തണം ഈ ഭാഗം നീക്കംചെയ്യുക നമ്മൾ അത് ചെയ്യുമ്പോൾ സൈഡ് വ്യൂവിൽ മെറ്റീരിയൽ ഉള്ള സ്ഥലമാണിതെന്ന് നമുക്ക് കാണാൻ കഴിയും ഇത് ഹോളോ ഭാഗമായതിനാൽ ഇതും ഹോളോ ഭാഗമാണ് അതിനാൽ നമ്മൾക്ക് അവിടെ ലൈനുകൾ ഒന്നുമില്ല അത് പൊങ്ങിക്കിടക്കുന്നതുപോലെ തോന്നുന്നു അതുപോലെ നമ്മൾക്ക് അധിക മെറ്റീരിയലും ടേപ്പർ പോലെയും ഉണ്ട് അപ്പോൾ സ്വാഭാവികമായും നമുക്ക് ഈ ഭാഗം ലഭിക്കും നമുക്ക് ഫ്രസ്റ്റം സിലിണ്ടറുകൾ ടാപ്പേർഡ് പോലെയുള്ളവ ഉണ്ടെങ്കിൽ നമ്മൾക്ക് എല്ലായ്പ്പോഴും സെക്ഷൻ വ്യൂ ആ പാദത്തിന്റെ നാലിലൊന്ന് മാത്രമേയുള്ളൂ അതിനാൽ പകുതി കാണിക്കുന്നതിനുപകരം ഈ ഭാഗം നീക്കംചെയ്യും നമ്മൾ ആ ഭാഗം നീക്കംചെയ്യുമ്പോൾ ഈ സൈഡ് വ്യൂവിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഈ ഭാഗത്ത് മെറ്റീരിയൽ ഉണ്ട് അതാണ് നമ്മൾ അവിടെ കാണുന്നത് അതുപോലെ നമ്മൾക്ക് ഈ ഒബ്ജക്റ്റ് ഉണ്ട് അത് ഈ നാല് സ്ഥലങ്ങളിൽ ബോൾട്ട് ചെയ്യാൻ കഴിയും ഇതിന് ഈ സിലിണ്ടർ ഭാഗമുണ്ട് ഇപ്പോൾ ടോപ് വുവിൽ നിന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു സർക്കിൾ ഉണ്ടാകും ഒപ്പം ഈ ചെറിയ ബോൾട്ട് ചെയ്ത ഭാഗങ്ങളാൽ ചുറ്റപ്പെട്ട ആന്തരിക സർക്കിളുകളും ഉണ്ട് നമ്മൾ പരിഗണിക്കാൻ താൽപ്പര്യപ്പെടുന്ന സെക്ഷൻ ഇതാണ് കൂടാതെ വലിയ ഡാഷിന് ശേഷം രണ്ട് ഹ്രസ്വ ഡാഷുകളും അങ്ങനെ ആ ഭാഗം നിലനിർത്താനും ഈ ഭാഗം നീക്കംചെയയുക ഈ ഭാഗം മുഴുവൻ നമ്മൾ നീക്കംചെയ്യുകയാണെങ്കിൽ ആ ഭാഗത്തിനുള്ളിൽ നമ്മൾക്ക് മെറ്റീരിയൽ ഉണ്ട് അത് മുകളിലേക്ക് പോകുന്നു കാരണം ഈ ഭാഗം നീക്കംചെയ്യുന്നത് നമ്മൾ നോക്കുന്നു ആ രീതിയിൽ അത് നീക്കംചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മൾ ആ ഭാഗം നീക്കംചെയ്യുമ്പോൾ ഇതിൽ മെറ്റീരിയൽ ഉണ്ട് ഇതിലും മെറ്റീരിയൽ ഉണ്ട് ബാക്കിയുള്ള ഭാഗം സാധാരണ പോലെ ടോപ്പ് വ്യൂ നൽകുന്നതുപോലെ തന്നെ അതുപോലെ ഈ സെക്ഷനൽ വ്യൂ കൾ ഒരു വ്യൂവിൽ ആയിരിക്കണമെന്നില്ല ഫ്രണ്ട് വ്യൂ പോലെ നിങ്ങൾക്ക് ഒരു സെക്ഷനോ ടോപ്പ് വ്യൂവോ എടുക്കാം അത് വളഞ്ഞതോ സെക്ഷനോ ആകാം ഉദാഹരണത്തിന് ഇവിടെ നോക്കൂ ഇതാണ് നമ്മുടെ പക്കലുള്ളത് ഒന്നാമതായി ഒരു സെക്ഷൻ ഉണ്ടായിരിക്കുക ഈ ഭാഗം നിലനിർത്തുക വീണ്ടും ഒരു സെക്ഷൻ വീണ്ടും ഒരു സെക്ഷൻ വീണ്ടും ഒരു സെക്ഷൻ വീണ്ടും ഒരു സെക്ഷൻ ഈ ഭാഗം സൂക്ഷിക്കുക അതായത് ഈ മുഴുവൻ കാര്യങ്ങളും സൂക്ഷിച്ച് ഈ ഭാഗം നീക്കംചെയ്യുക നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് നോക്കാം ഈ ഭാഗമാണ് നമ്മൾ നീക്കംചെയ്യുന്നത് ഇത് ശൂന്യമാണ് അതിനാൽ ഇവിടെ ശൂന്യമാണ് ഇത് നമ്മൾ നീക്കംചെയ്യുന്ന ഭാഗമാണ് അതിനാൽ നമുക്ക് ഡാഷ് ചെയ്ത ഒന്ന് ഉണ്ട് ഇത് മുഴുവൻ നമുക്ക് മുന്നിൽ നിന്ന് കാണാൻ കഴിയില്ല എന്നാൽ വീണ്ടും ഇവിടെ ഡാഷ് ഉണ്ട് നിങ്ങൾക്ക് ഒരു പെർസ്പെക്ടിവ് വ്യൂ നൽകാൻ ഈ 3 ഡി ഒബ്ജക്ടിൽ ഒരു സ്ലൈസ് ഉണ്ടെങ്കിൽ ഈ ഭാഗം ആ ദിശയിൽ സൂക്ഷിക്കുക ഈ ഭാഗം നീക്കംചെയ്യുക വ്യൂ അങ്ങനെ ആരിക്കും മെറ്റീരിയൽ ഉള്ള ഹാച്ച് ദിശകൾ ശ്രദ്ധിക്കുക കാരണം ഈ സെക്ഷൻ ഇവിടെ മാത്രമേ പരിഗണിക്കൂ പക്ഷേ ആ സർക്കിളിനുള്ളിലല്ല അതുകൊണ്ടാണ് സർക്കിൾ പൂർത്തിയാകുന്നത് അതുപോലെ ഇവിടെ നമുക്ക് ഒരു സോളിഡ് ഉണ്ട് നമ്മൾ ഒരു കട്ട് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം വലിയ ഡാഷും അതിനുശേഷം രണ്ട് ചെറിയ ഡാഷുകളും മറ്റും മറ്റൊന്ന് ഇവിടെയുണ്ട് ആ ഭാഗം സൂക്ഷിക്കാനും ശേഷിക്കുന്ന ഭാഗം നീക്കംചെയ്യാനും നമ്മൾ ശ്രമിക്കുന്നു പിന്നെ നമ്മൾ എവിടെ നിന്ന് മെറ്റീരിയൽ നീക്കംചെയ്യുന്നുവോ ഈ സെക്ഷൻ നമ്മൾക്ക് അവിടെ അവശേഷിക്കുന്ന വസ്തുക്കൾ ഉണ്ട് ശേഷിക്കുന്ന ഭാഗം ശൂന്യമാണ് സാധാരണയായി കട്ട് പ്ലെയിനുകൾ വ്യത്യസ്ത ശൈലികളിൽ കാണിക്കുന്നു ഒരു ഫ്രണ്ടൽ അല്ലെങ്കിൽ വെർട്ടിക്കൽ കട്ടിംഗ് പ്ലെ യിൻ ഉണ്ട് ഹൊറിസൻ്റൽ കട്ട് പ്ലെയിനും ഉണ്ടായിരിക്കാം സെക്ഷനൽ പ്ലെയിൻ പ്രൊഫൈൽ കട്ട് ആണ് മറ്റൊന്ന് ഓക്സിലറി പ്ളെയിൻ ആണ് ഈ ഓക്സിലറി വെർടികൽ പ്ലെയനിൽ നമ്മൾക്കു കട്ട് ഉണ്ടാക്കാൻ പറ്റും അതിനാൽ ഇത്തരത്തിലുള്ളവയെ നമ്മൾ ഓക്സിലറി സെക്ഷൻ പ്ലെയിനുകൾ എന്ന് വിളിക്കുന്നു കൂടാതെ ചരിഞ്ഞ സെക്ഷണൽ വ്യവും ഉണ്ടാകാം അടുത്ത ക്ലാസ്സിൽസെക്ഷണൽ വുവിനെ കുറിച്ച് കൂടുതലറിയുകയും ഡ്രോയിംഗ് ഷീറ്റിൽ അവയെ കാണിക്കുകയും ചെയ്യാം